വീണ്ടും സ്വാഗതം ഇത് അൻപത്തിനാലാം നമ്പർ ലക്ച്ചർ ആണ് ഇതിൽ എക്സാറ്റ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ തുടരും പ്രത്യേകമായി ഇന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സാറ്റ് അല്ലാത്ത ഡിഫറൻഷ്യൽ സമവാക്യം തരുമ്പോൾ ഉള്ളതിനെ കുറിച്ചാണ് പക്ഷേ അത് എളുപ്പത്തിൽ എക്സാറ്റ് ആക്കാൻ കഴിയുന്നവയാണ് അതോടൊപ്പം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ആമുഖം ചിത്രത്തിലേക്ക് വരുന്നു എക്സാറ്റ് ആവാൻ ആവശ്യമായതും മതിയായതുമായ വ്യവസ്ഥകൾ ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ ഓർക്കാം ഡിഫറൻഷ്യൽ സമവാക്യം എക്സാറ്റ് ആവാൻ ആവശ്യമായതും മതിയായതുമായ അവസ്ഥ എന്നാണ് അതായത് ഈ അവസ്ഥ ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ സമവാക്യം എക്സാറ്റ് ആയിരിക്കണം തിരിച്ച് സമവാക്യം എക്സാറ്റ് ആണെങ്കിൽ നിർബന്ധമായും ഈ അവസ്ഥ നിലനിൽക്കുകയും വേണം അതിനാൽ നൽകിയ സമവാക്യം എക്സാറ്റ് അല്ലാത്തപ്പോൾ എന്തുചെയ്യണം ഉദാഹരണത്തിന് എന്ന രൂപത്തിൽ ഉള്ള സമവാക്യം എക്സാറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ൻറെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്നിവയുടെ ഒരു ഫംഗ്ഷൻ തിരഞ്ഞെടുക്കാനാകും എങ്ങനെയെന്നാൽ തന്നിരിക്കുന്ന സമവാക്യത്തിൻറെ എല്ലാ പദങ്ങളെയും ഈ ഫംഗ്ഷൻ കൊണ്ട് ഗുണിച്ചാൽ സമവാക്യം എക്സാറ്റ് ആയിത്തീരും ഇവിടെ അത്തരമൊരു ഗുണിതത്തെ സംയോജന ഘടകം അഥവാ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യവുമായുള്ള ഗുണനത്തിനു ശേഷം അത് എക്സാറ്റ് ആയിത്തീരാൻ വേണ്ടി എടുക്കുന്ന എന്നിവയുടെ ഫംഗ്ഷനല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ് സാധാരണയായി ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർനെ കുറിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാൽ ഇത് ഒരു ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ ഇവിടെ ഇതുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഡിഫറൻഷ്യൽ സമവാക്യം എന്നത് എക്സാറ്റ് ആയി മാറുന്നു ഇപ്പോൾ എന്താണ് പ്രയോജനം നൽകിയ സമവാക്യം എക്സാറ്റ് അല്ല തുടർന്ന് ഇവിടെ സൊല്യൂഷൻ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ എന്തുചെയ്യും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തുകയും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിലേക്ക് ഈ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ഗുണിച്ചുകഴിഞ്ഞാൽ ഈ സമവാക്യം എക്സാറ്റ്ആയിത്തീരുകയും ചെയ്യുന്നു എക്സാറ്റ് ഡിഫറൻഷ്യൽ സമവാക്യം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്കറിയാം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഇടത് വശത്ത് ഉള്ളവയുടെ ഡെറിവേറ്റീവ് ആയി വരുന്ന എന്ന ഫംഗ്ഷൻ കണ്ടെത്തേണ്ടതുണ്ട് ഈ ലക്ച്ചറിന്റെ പ്രധാന വിഷയം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യം എക്സാറ്റ് ഡിഫറൻഷ്യൽ സമവാക്യമല്ലാത്തപ്പോൾ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടെത്താമെന്നതിനുള്ള ചില ടെക്നിക്കുകൾ ചർച്ച ചെയ്യുക എന്നതാണ് എന്ന ഫോമിലുള്ള സമവാക്യത്തിന് എല്ലായ്പ്പോഴും ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറോ ഒന്നിൽ കൂടുതൽ ഫാക്ടറുകളോ ഉണ്ടാകാമെങ്കിലും അവ കണ്ടെത്തുന്നതിന് പൊതുവായ ഒരു നിയമവുമില്ല അല്ലെങ്കിൽ പകരം ഈ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തുന്നത് അൽപ്പം ശ്രമകരമായ ജോലിയാണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തുന്നത് പൊതുവെ എളുപ്പമല്ല അതിനാൽ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ചില പ്രത്യേക കേസുകൾ മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ റൂൾ നമ്പർ 1 പരിശോധനയിലൂടെ മാത്രം ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തുന്നതാണ് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ളതും അതുപോലെ ഏറ്റവും കഠിനവുമായ സമീപനമാണിത് കാരണം ഇവിടെ നമ്മൾ ഘടകത്തെ ഊഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഘടകം കൊണ്ട് സമവാക്യത്തെ ഗുണിച്ചാൽ എക്സാറ്റ് ആയിത്തീരും പക്ഷേ ഇത് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തുന്നതിനുള്ള ചിട്ടയായ ഒരു സമീപനമല്ലാത്തതുകൊണ്ട് ഈ രീതി ബുദ്ധിമുട്ടാണ് ഈ രീതി കൃത്യമായ ചില സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യലുകൾ തിരിച്ചറിയുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഇവിടെ ചില സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യലുകൾ അറിയാമെങ്കിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യം നോക്കിയാൽ ഈ സമവാക്യത്തെ ഈ രൂപത്തിലേക്ക് മാറ്റിയെഴുതുകയോ അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ച ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ഗുണിക്കുകയോ വിഭജിക്കുകയോ ചെയ്തു ഈ രൂപത്തിലേക്ക് മാറ്റിയെഴുതാൻ കഴിയുമെന്ന് കണ്ടെത്തുകയോ ചെയ്താൽ അവ കൃത്യമായി ഈ സ്റ്റാൻഡേർഡ് ഫംഗ്ഷനുകളുടെ ഡിഫറൻഷ്യൽ ആയി നമുക്ക് ലഭിക്കും ഈ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളിലൂടെ അവ പരിഹരിക്കുക എന്ന സമീപനമാണ് ഇവിടെയുള്ളത് ഈ സ്റ്റാൻഡേർഡ് ഫോമുകൾ എന്തൊക്കെയാണ് അവയിൽ ചിലത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടും അവ നമുക്ക് അറിയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലാത്തവയിലേക്കും സഹായകമാകും ഉദാഹരണത്തിന് തന്നിരിക്കുന്ന സമവാക്യത്തിൽ എന്നുണ്ടെങ്കിൽ ഇത് ഒന്നുമല്ല യുടെ ഡെറിവേറ്റീവ് ആണ് അത് നമുക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുകയും ചെയ്യും നിർവചനം അനുസരിച്ച് ആണ് അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സമവാക്യം മാറ്റിയെഴുതുന്നതിലൂടെ എന്ന പദം ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇത് എന്ന പദത്തിന്റെ ഡിഫറൻഷ്യൽ ആണെന്ന് നമുക്കറിയാം അതിനാൽ ഈ യുടെ ഡിഫറൻഷ്യൽ ആണെന്ന് ഓർമ്മിക്കുന്നത് ഉപയോഗപ്രദമാകും മറ്റൊരു സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ എന്നതാണ് ഡിഫറൻഷ്യൽ സമവാക്യത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ആണ് ഇത് മൂന്നാമത്തേത് അല്ലെങ്കിൽ നാലാമത്തേത് അല്ലെങ്കിൽ അഞ്ചാമത്തേത് അതിനാൽ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യലുകളുടെ സാധ്യത തിരിച്ചറിയാൻ ഉള്ള ഒരു ഉദാഹരണത്തിലൂടെ എങ്കിലും നമുക്ക് കടന്നു പോകാം

അതിനാൽ ഇത് എക്സാറ്റ് ഡിഫറൻഷ്യൽ സമവാക്യമല്ലെന്ന് വീണ്ടും പരിശോധിക്കാം കാരണം അപ്പോൾ ഇവിടെ എന്താണ് അതിനാൽ ഇവിടെ നമുക്ക് എന്നിവയുണ്ട് അതാണ് അടിസ്ഥാനമാക്കിയുള്ള ൻറെ പാർഷ്യൽ ഡെറിവേറ്റീവ് അതോടൊപ്പം അടിസ്ഥാനമാക്കിയുള്ള ൻറെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നും ആയിരിക്കും അതിനാൽ അവ തുല്യമല്ല തീർച്ചയായും ഈ രൂപത്തിൽ നൽകിയിരിക്കുന്ന ഈ സമവാക്യം എക്സാറ്റ് ഡിഫറൻഷ്യൽ സമവാക്യമല്ല അതിനാൽ പരിശോധനയിലൂടെ ഉള്ള ഈ സമീപനം നമ്മൾ ഇപ്പോൾ ചെയ്യും ഇവിടെ നമുക്ക് ഉണ്ട് നമുക്ക് ടേം നൊപ്പം അതുപോലെ ടേം ക്ക് ഒപ്പവും അതിനാൽ ഈ രണ്ട് പദങ്ങളിൽ നിന്നും നമ്മൾ പൊതുവായി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും എന്നു ലഭിക്കുന്നു ആ പദം ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുമു ണ്ട് അതിൽനിന്ന് എന്ന് ലഭിക്കുന്നു ഇൻറെഗ്രേറ്റ് ചെയ്താൽ എന്നും ലഭിക്കുന്നു ഇതിൽനിന്ന് എന്നു ലഭിക്കുന്നു ഇതാണ് നമുക്ക് നൽകിയിരുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻ കുറച്ചുകൂടി പൊതുവായ സമീപനം നമ്മൾ ചർച്ച ചെയ്യും കാരണം ചില ഫംഗ്ഷനുകൾ കൊണ്ട് ഗുണിച്ചോ വിഭജിച്ചോ സമവാക്യത്തിലെ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽസ് പരിശോധിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല അതിനാൽ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ലഭിക്കുന്നതിന് നമുക്ക് പിന്തുടരാവുന്ന കൂടുതലോ ചിട്ടയായ സമീപനമോ ഇവിടെയുണ്ട് തന്നിട്ടുള്ള എന്ന സമവാക്യത്തെ എന്ന ഒരു ഫങ്ക്ഷൻ കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കുന്ന എന്ന സമവാക്യം എക്സാറ്റ് ആയിത്തീരുന്ന തരത്തിലുള്ള ഒരു ഫങ്ക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു തന്നിട്ടുള്ള സമവാക്യം എക്സാറ്റ് ആകുന്നതിന് ആവശ്യമായതു മതിയായ തുമായ നിബന്ധന നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു അതായത് ൻറെ അടിസ്ഥാനമാക്കിയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ൻറെ അടിസ്ഥാനമാക്കിയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്നോട് തുല്യം ആകുമ്പോഴാണ് ഈ സമവാക്യം എക്സാറ്റ് ആവുന്നത് അതിനാൽ എന്ന ഈ നിബന്ധനയിൽ നിന്നു ചില പ്രത്യേക കേസുകൾ ഉരുത്തിരിഞ്ഞു എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഈ എന്നത് ഗുണിതമായി അഥവാ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയി നമുക്ക് ആവശ്യമുള്ളതാണ് അതിനാൽ എന്ന ഈ സമവാക്യം തൃപ്തിപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ കണ്ടെത്താൻ കഴിയുമെങ്കിൽ നൽകിയ സമവാക്യം എക്സാറ്റ് ആയിരിക്കും ഇവിടെ ഒരു പ്രശ്നം ഈ സമവാക്യം പരിഹരിക്കുന്നതാണ് കാരണം ഇത് ഒരു സാധാരണ സമവാക്യമല്ല ഈ സമവാക്യത്തിൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ട് അതിനാൽ ഇത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ സമവാക്യമാണ് ഇതിൽനിന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ സമവാക്യം പരിഹരിക്കുക എന്നത് എളുപ്പമല്ല അതിനാൽ അത്തരമൊരു സമവാക്യം പരിഹരിക്കാൻ കഴിയുന്ന ചില പ്രത്യേക കേസുകൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളിൽ നിന്ന് അജ്ഞാതമായ ലഭിക്കുന്നതിനുള്ള നിരവധി പ്രത്യേക കേസുകൾ ഉരുത്തിരിഞ്ഞേക്കാം അവയിൽ രണ്ടെണ്ണമെങ്കിലും നമ്മൾ ഇവിടെ പരിഗണിക്കും അതിനാൽ ആദ്യമായി നമ്മൾ പരിഗണിക്കുന്ന രണ്ട് പ്രത്യേക കേസുകൾ ഇവയാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അത് ഒന്നുകിൽ ന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആവുക അല്ലെങ്കിൽ യുടെ മാത്രം ഒരു ഫംഗ്ഷൻ ആവുക ഇവ രണ്ടും ആണ് നമ്മൾ ആദ്യം അനുമാനിക്കുന്നത് അതിനാൽ കേസ് 1 ൽ എന്നത് ന്റെ മാത്രം ഫംഗ്ഷൻ ആണെന്ന് അനുമാനിച്ചാൽ ഈ നിബന്ധന അതായത് ഈ പി ഡി ഇ അതായത് എന്ന് മാറ്റി എഴുതാം അതിനാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ മറ്റൊരു ലളിതമായ രൂപമാണിത് അത് മറ്റൊന്നുമല്ല എന്നാൽ വീണ്ടും ഉദ്ദേശ്യം പരിഹരിക്കപ്പെടുന്നില്ല ഇവിടെ എന്നത് ന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ് അതിനാൽ ഇടതുവശത്തെ എന്നത് എന്ന ഓർഡിനറി ഡെറിവേറ്റീവ് ആണ് അതും ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ ആയിരിക്കും അതിനാൽ വലതുവശത്ത് ഉള്ളത് ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ അല്ല എങ്കിൽ നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ഒരു പൊരുത്തക്കേട് നമുക്ക് ലഭിക്കും അതിനാൽ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി ലുള്ള ഈ സമവാക്യം പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനായി വലതുവശത്തെ എന്നത് ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ ആയിരിക്കണം ഇതിൽ എന്നത് ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ ആണെന്നതിനാൽ നമുക്ക് ഇതിലെ എന്നത് ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ ആയിരിക്കണമെന്ന മറ്റൊരു അനുമാനം എടുക്കാം തുടർന്ന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കാനാകും അതിനാൽ നമ്മുടെ അടുത്ത അനുമാനം എന്നത് ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ ആയിരിക്കണമെന്നതായിരിക്കും കാരണം ഇതിൽ എന്നത് ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ ആണ് എന്നത് ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ ആണെങ്കിൽ അത് പ്രധാന വ്യവസ്ഥയായി എടുക്കാം കാരണം ഇത് എന്നിവയെ ആശ്രയിക്കുന്നു അതിനാൽ ഇത് വളരെ സങ്കീർണ്ണമല്ലാത്ത ന്റെ മാത്രം ഒരു ഫങ്ക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ലളിതമായ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കാൻ കഴിയും ഇതിനെ നമുക്ക് എന്നു വിളിക്കാം കാരണം മാത്രമുള്ള ഒരു ഫങ്ക്ഷൻ ഒന്ന് നമ്മൾ അനുമാനിച്ചുട്ടുണ്ട് എങ്കിൽ മാത്രമേ എന്ന സമവാക്യം പരിഹരിക്കാനായി നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ ഇത് മാത്രമുള്ള ഒരു ഫങ്ക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ന സമവാക്യം പരിഹരിക്കാൻ കഴിയും ഇതിൽ വലതുവശത്ത് എന്നത് ഈ ഒരു ലളിതമായ ഫംഗ്ഷനാണെങ്കിൽ ഇത് ഒരു ലളിതമായ ഡിഫറൻഷ്യൽ സമവാക്യമാണ് നമുക്ക് ആവശ്യമുള്ള ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ഇവിടെ നിന്ന് ലഭിക്കും ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്നും അതിൽ നിന്ന് എന്ന ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ലഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് വ്യവസ്ഥ നമ്മൾ ഈ പരിശോധിക്കേണ്ടതുണ്ട് ഇത് ന്റെ മാത്രം ഫംഗ്ഷൻ ആണെങ്കിൽ എന്നത് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആകുമെന്ന് നമ്മുടെ നിർമ്മാണമനുസരിച്ച് നമുക്ക് എഴുതാം കൊണ്ട് ഈ കേസിൽ കൊണ്ട് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തെ നിങ്ങൾ ഗുണിച്ചാൽ കിട്ടുന്ന സമവാക്യം എക്സാറ്റ് ആയിരിക്കും എന്നത് ആവശ്യമായതും മതിയായതുമായ വ്യവസ്ഥയിലൂടെ നമ്മൾ കണ്ടു തുടർന്ന് ഇത് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആയി വർത്തിക്കും കേസ് 2 നമ്മൾ തൊട്ടുമുമ്പ് പ്രസ്താവിച്ച പോലെ കൈകാര്യം ചെയ്യാൻ കഴിയും ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എന്നത് യുടെ മാത്രം ഒരു ഫങ്ക്ഷൻ ആണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ വീണ്ടും അത്തരമൊരു ഡിഫറൻഷ്യൽ സമവാക്യം രൂപപ്പെടുകയും ആ സമവാക്യത്തിന്റെ സ്ഥിരതയ്ക്കായി എന്നത് യുടെ മാത്രം ഒരു ഫങ്ക്ഷൻ ആയിരിക്കുക എന്ന നിബന്ധന ലഭിക്കുകയും ചെയ്യുന്നു അതിനെ നമുക്ക് എന്നുവിളിക്കാം തുടർന്നുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കാൻ ആവുകയും നമുക്ക് എന്ന ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ രണ്ട് ലളിതമായ കേസുകൾ നമുക്ക് ലഭിച്ചു ആവശ്യമായതും മതിയായതുമായ വ്യവസ്ഥയിൽ നിന്നുമുള്ള ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിച്ച് കണ്ടുപിടിക്കാനാകുന്ന ധാരാളം കേസുകൾ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ കുറഞ്ഞത് ഈ രണ്ട് പ്രത്യേക കേസുകളെങ്കിലും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ആദ്യത്തേത് എന്നത് മാത്രമായുള്ള ഫംഗ്ഷൻ ആവുമ്പോൾ ഉള്ളതായിരുന്നു അതിന് നമ്മൾ എന്നു വിളിക്കുന്നു തുടർന്നു ഓർഡിനറി ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുന്നു ആ കേസിൽ എന്നതാണ് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ രണ്ടാമത്തെ കേസിൽ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എന്നായിരുന്നു ഇതുപയോഗിച്ച് നമ്മൾ ഇപ്പോൾ ചില ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകും ആദ്യം നമുക്ക് പരിഗണിക്കാം ഇതിൽ എന്നും എന്നും ആണുള്ളത് സ്വാഭാവികമായും ഇവ രണ്ടും തുല്യമല്ല നമുക്ക് എന്ന മാത്രമുള്ള ഒരു ഫംഗ്ഷൻ കിട്ടുന്നു അതിനാൽ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എന്നായിരിക്കും തന്നിരിക്കുന്ന സമവാക്യത്തെ കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ നമുക്ക് എന്ന സമവാക്യം ലഭിക്കും ഇതൊരു എക്സാറ്റ് ഡിഫറൻഷ്യൽ ആയിരിക്കും അതിൻറെ സൊല്യൂഷൻ എന്ന് ലഭിക്കുന്നു അതിനാൽ ഒരു നമ്മൾ കണ്ടു പിടിക്കുന്നു അതിൻറെ എക്സാറ്റ് ഡിഫറൻഷ്യൽ ഇവിടെ തന്നിരിക്കുന്നത് ആയിട്ടുള്ള ഒരു അത്തരമൊരു എഫ് ലഭിക്കുന്നതിന് നമ്മൾ പിന്തുടരുന്ന പ്രക്രിയയ്ക്ക് ശേഷമുള്ള ഒരു സൊലൂഷൻ ആണിത് നമ്മൾ എന്ന മറ്റൊരു ഉദാഹരണം എടുക്കുന്നു

അതിനാൽ ഒരാൾക്ക് ഇത് പരിഹരിക്കാനാകും കൂടാതെ ഇതിൻറെ സൊല്യൂഷൻ എന്ന് വരികയും ചെയ്യുന്നു ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നതിന് പൊതുവായ മറ്റു സമീപനങ്ങൾ ഉണ്ടെങ്കിലും വളരെ കുറച്ച് കേസുകൾ മാത്രമേ നമ്മൾ ഇവിടെ പരിഗണിച്ചിട്ടുള്ളൂ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള വ്യവസ്ഥയുടെ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ട് നമ്മൾ അവയെ കണ്ടെത്തുന്നതിനുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഉദാഹരണത്തിന് എന്ന സമവാക്യം ഹോമോജീനിയസ്ഉം പൂജ്യം അല്ലാത്തതും ആണെങ്കിൽ എന്നത് ഒരു ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആയി മാറുന്നു ഇത് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും എന്നത് നേരിട്ട് ഒരാൾക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ ഇവിടെ സമവാക്യം നിർബന്ധമായും ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യമായിരിക്കണം കൂടാതെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നേരത്തെ അറിയാം നമുക്ക് കൃത്യമായി ഈ സമീപനം പിന്തുടരണമെന്ന് ഇല്ല ഇവിടെ നമ്മൾ ഈ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തികൊണ്ട് എക്സാറ്റ് സമവാക്യം പരിഹരിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് തന്നിരിക്കുന്ന സമവാക്യം എന്ന രൂപത്തിലുള്ളതാണ് ഇവിടെ എങ്കിൽ എന്നത് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും ഈ സമവാക്യത്തിലേക്ക് നമ്മൾ ഇത് ഗുണിച്ചാൽ ഈ സമവാക്യം എക്സാറ്റ് ആയി മാറും അതിനാൽ അത്തരം നിരവധി നിയമങ്ങൾ അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞെടുക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ നമ്മൾ വളരെ പൊതുവായ ഒരു സമീപനത്തെക്കുറിച്ച് ചർച്ചചെയ്തു അവിടെ നിന്നും ആ പ്രത്യേക കേസുകളിൽ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ നേടാമെന്ന് നമ്മൾ കണ്ടിട്ടുമുണ്ട് നമ്മൾ ഉപസംഹരിക്കുകയാണ് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എന്നത് ഒന്നുമല്ല മറിച്ച് ഇവിടെ ഒരു ഫംഗ്ഷൻ മാത്രമാണ് തന്നിരിക്കുന്ന എക്സാറ്റ് അല്ലാത്ത ഡിഫറൻഷ്യൽ സമവാക്യത്തിലേക്ക് ആ ഫംഗ്ഷൻ നിങ്ങൾ ഗുണിച്ചാൽ ഗുണനത്തിന് ശേഷം സമവാക്യം എക്സാറ്റ് ആയി തീർന്നാൽ അത്തരം ഒരു ഫങ്ക്ഷനെ നമ്മൾ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നു കൂടാതെ എന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്കളുടെ വ്യത്യാസത്തെ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ന്റെ മാത്രം ഒരു ഫംഗ്ഷനാണ് എങ്കിൽ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരിക്കുമെന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞു എടുത്തു അതിനുശേഷം എന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്കളുടെ വ്യത്യാസത്തെ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് യുടെ മാത്രം ഒരു ഫംഗ്ഷനാണ് എങ്കിൽ ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരിക്കുമെന്നും നമ്മൾ ഉരുത്തിരിഞ്ഞു എടുത്തു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി